നിങ്ങൾക്കറിയാമോ ഡിസൈനേഴ്സ് ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് നീങ്ങിയതായി ഞാൻ സൂചിപ്പിച്ചിരുന്നു അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് വിള്ളൽ വളർച്ച പ്രവചിക്കാനും ഇടയ്ക്കിടെ ഉള്ള ഇടവേളകളിൽ പരിശോധിക്കാനും കഴിയും പാരീസ് നിയമത്തിന്റെ വികാസത്തോടെയാണ് ഇത് സാധ്യമായത് പാരീസ് നിയമം വികസിപ്പിച്ചതിനുശേഷം മാത്രമേ ഡിസൈനേഴ്സ് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് നോക്കുന്നത് ഉപയോഗപ്രദമാകൂ ഞാൻ പരാമർശിച്ചു വിള്ളൽ വളർച്ച എങ്ങനെ സംഭവിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആണ് Paris നിയമം അദ്ദേഹം അവശ്യവസ്തുക്കൾ മാത്രം നോക്കി Paris നിയമത്തിന്റെ അടിസ്ഥാന സമീപനം രൂപപ്പെടുത്തുന്നതിനിടയിൽ അദ്ദേഹം പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും മറ്റ് പല ഫലങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കില്ലായിരുന്നു കാരണം ഈ പ്രതിഭാസം വളരെ സങ്കീർണമാണ് അവസാന ക്ലാസ്സിൽ നമ്മൾ വിള്ളൽ അടച്ചതിന്റെ പശ്ചാത്തലത്തിൽ പാരീസ് നിയമത്തിന്റെ വ്യതിയാനങ്ങളിലൊന്നാണ് ഞാൻ സൂചിപ്പിച്ചിരുന്നുവേരിയബിൾ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗ് ഉള്ളപ്പോൾ ഘടകത്തിന്റെ ആയുസ്സ് കണക്കാക്കുമ്പോൾ നിങ്ങൾ ക്രാക്ക് ക്ലോഷർ ഇഫക്റ്റുകൾ ഉൾപ്പെടുത്തേണ്ടിവരും അമിതഭാരത്തിന്റെ ഫലത്തെക്കുറിച്ചും നമ്മൾ ഒരു ഹ്രസ്വ വീക്ഷണം നടത്തി രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങൾ പ്രാഥമികമായി മനസിലാക്കേണ്ടത് ആവർത്തിച്ചുള്ള ലോഡിംഗ് കാരണം ക്രാക്ക് ടിപ്പിന് മുന്നോടിയായി ഒരു അവശേഷിക്കുന്ന സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുന്നു അത് അടിസ്ഥാനമാക്കുന്നു ഇത് നന്നായി മനസിലാക്കാൻ നമുക്ക് ഇത് വീണ്ടും പരിശോധിക്കാം അതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്താണ് റെസിഡ്യൂള് സൈക്കിൾ നമ്മൾ ആദ്യം നോക്കുന്നത് ലോഡ് 0 ൽ നിന്ന് പീക്ക് ലോഡിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ എന്തുസംഭവിക്കും ഇത് സൈക്കിളിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾക്ക് ഇവിടെ വിള്ളലും വിള്ളൽ അക്ഷവും ഉണ്ട് സ്ട്രെസ് ഫീൽഡ് ഇതുപോലെ കാണിക്കുന്നു വിള്ളൽ അക്ഷത്തിൽ സിഗ്മ y യുടെ മൂല്യം എങ്ങനെ മാറുന്നു ഇത് സിഗ്മ ys ന്റെ ഒരു മൂല്യത്തിലെത്തുന്നു പ്ലാസ്റ്റിക് സോൺ മോഡലിംഗിൽ നിന്ന് പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആശയങ്ങൾ കൂടുതൽ മനസിലാക്കാൻ ഞാൻ ഇവിടെ ഇലാസ്റ്റിക്കലി ഡിഫോർമഡ് മെറ്റീരിയൽ കാണിക്കുന്നു അതിനാൽ ഞാൻ ലോഡ് 0 മുതൽ പീക്ക് ലോഡിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വിള്ളലിന് സമീപം പ്ലാസ്റ്റിക് സോൺ വികസിപ്പിക്കപെടുന്നു അത് ഇലാസ്റ്റിക് വസ്തുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ലോഡ് നീക്കംചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇലാസ്റ്റിക് അവസ്ഥയ്ക്ക് വിധേയമായ മെറ്റീരിയലിന്റെ ഭാഗം അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങും പ്ലാസ്റ്റിക് ലോഡിംഗ് അവസ്ഥയ്ക്ക് വിധേയമാകുന്ന ഭാഗം അതിന്റെ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഘടകത്തിന് തുല്യമായ വളരെ ചെറിയ അളവിൽ വീണ്ടെടുക്കും പ്ലാസ്റ്റിക് രൂപഭേദം കാരണം ഇതിന് പ്ലാസ്റ്റിക് സ്ട്രെയിൻ ഘടകം ഉണ്ടാകും ഒടുവിൽ സംഭവിക്കുന്നതെന്താണ് പ്രക്രിയയിൽ ഇലാസ്റ്റിക് മെറ്റീരിയൽ വീണ്ടെടുക്കുമ്പോൾ അത് ഈ മേഖലയിൽ അമിത ബലം പ്രയോഗിക്കും ഇത് കംപ്രസ്സീവ് പ്ലാസ്റ്റിക് സോണിലേക്ക് മാറും അത് ആനിമേഷൻ നിർമ്മിച്ച രീതിയിൽ നിന്ന് നിങ്ങൾക്ക് ദൃശ്യവൽക്കരിക്കാനാകും അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തിയതു ഇലാസ്റ്റിക് സോൺ വീണ്ടെടുത്തു പ്ലാസ്റ്റിക് സോൺ കംപ്രസ്സുചെയ്തു പ്രക്രിയയിൽ ഇത് അക്ഷത്തിന്റെ നെഗറ്റീവ് ഭാഗത്തേക്ക് തള്ളപ്പെടുന്നു അതിനാൽ പോസിറ്റീവ് സിഗ്മ ys ആരംഭിക്കുന്നതിനുപകരം ഈ മേഖലയിൽ റെസിഡ്യൂള് കംപ്രസ്സീവ് സ്ട്രെസ് ഉണ്ട് തുടർന്ന് ഒരു റെസിഡ്യൂള് ടെൻഷനും അതിനാൽ നിങ്ങൾ മനസിലാക്കേണ്ടത് ഓരോ ലോഡിംഗും അൺലോഡിംഗും നടക്കുമ്പോൾ റെസിഡ്യൂള് കംപ്രസ്സീവ് സ്ട്രെസ് ടെൻഷൻ എന്നിവയുടെ രൂപീകരണത്തിൽ ഇത് ഫലം നൽകുന്നു നിങ്ങൾക്കറിയാം ഒരു സാധാരണ ഘടകത്തിൽ നിങ്ങൾ ലോഡുചെയ്യുമ്പോഴും അൺലോഡുചെയ്യുമ്പോഴും റെസിഡ്യൂള് സ്ട്രെസ് വികസിക്കില്ല വിള്ളൽ പ്രശ്നത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ഏക കാരണം സമ്മർദ്ദങ്ങൾ വളരെ ഉയർന്നതാണ് കൂടാതെ മെറ്റീരിയൽ സമീപത്തുള്ള പ്ലാസ്റ്റിക് മേഖലയിലേക്ക് പോയി അതിനാൽ നിങ്ങൾ അൺലോഡുചെയ്യുമ്പോൾ residual സ്ട്രെസ് രൂപവത്കരണമുണ്ടാകുന്നു ഇത് വളരെ വളരെ അടിസ്ഥാനപരമാണ് നിങ്ങൾക്ക് വിള്ളൽ അടയ്ക്കുന്നതിനെ അഭിനന്ദിക്കണമെങ്കിൽ അല്ലെങ്കിൽ അമിതഭാരം മൂലമുള്ള റിട്ടാർഡേഷൻ ഇഫക്റ്റിനെ അഭിനന്ദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോഡ് ചെയ്യുന്നതും അൺലോഡുചെയ്യുന്നതും കാരണം ക്രാക്ക് ടിപ്പിന് മുമ്പായി residual സ്ട്രെസ് ഉണ്ടാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് വിള്ളൽ ടിപ്പിന് വളരെ അടുത്താണ് ഇത് കംപ്രസ്സീവ് സ്ട്രെസ് ആണ് കുറച്ച് അകലെ residual ടെൻഷനും ഉണ്ടാകുന്നു ഇത് ഒരു പ്രത്യേക ആംപ്ലിറ്യൂഡിനെ കാണിക്കുന്നു അതിനാൽ നിങ്ങൾ ക്രാക്ക് ക്ലോഷർ നോക്കിയാൽ എന്ത് സംഭവിക്കും എനിക്ക് ഈ രീതിയിൽ നിരവധി സൈക്കിളുകൾ ഉള്ളപ്പോൾ വിള്ളൽ വളരുന്നു അതിനാൽ പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പവും വർദ്ധിക്കും ഒരു പ്ലാസ്റ്റിക് വേക്ക് രൂപപ്പെട്ടു 0 ലോഡിലേക്ക് എത്തുന്നതിനുമുമ്പ് എന്തുകൊണ്ടാണ് വിള്ളൽ അടയ്ക്കുന്നതെന്ന് ഈ വേക്ക് വിശദീകരിക്കുന്നു അതിനാൽ ഫലപ്രദമായ സമ്മർദ്ദ തീവ്രത ഘടകം ഇപ്പോൾ കുറഞ്ഞു ഡെൽറ്റ K യിലെ മാറ്റം നിങ്ങൾക്ക് ഒരു സാധാരണ പ്രവർത്തന ഗതിയിൽ എന്താണുള്ളത് നിങ്ങൾ ഒരു വിള്ളൽ അടയ്ക്കുമ്പോൾ അവ വ്യത്യസ്തമായിരിക്കും ഡെൽറ്റ K എഫക്റ്റീവ് വാല്യൂ ഡെൽറ്റ K യേക്കാൾ കുറവാണ് കൂടാതെ നമ്മൾക്കു അത് എങ്ങനെ നേടാമെന്ന് നമ്മൾ കണ്ടു ആളുകൾ പരീക്ഷണങ്ങൾ നടത്തി അവർ ഇത് തിരിച്ചറിഞ്ഞു തുടർന്ന് ആളുകൾ വ്യത്യസ്ത രീതിയിലുള്ള വിള്ളൽ അടയ്ക്കൽ രീതികളും തിരിച്ചറിഞ്ഞു പ്ലാസ്റ്റിസിറ്റി ഇൻഡ്യൂസ്ഡ് ക്രാക്ക് ക്ലോഷർ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റ് സംവിധാനങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ അവർ നീങ്ങി അവസാന ക്ലാസിൽ അതിന്റെ മുഴുവൻ ശ്രേണിയും നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അമിതഭാരത്തിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നു ഫ്രാക്ചർ മെക്കാനിക്സിൽ വിള്ളൽ വളർച്ചയിൽ അമിതഭാരത്തിന്റെ സ്വാധീനം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണെന്ന് നിങ്ങൾക്കറിയാം അവസാന ക്ലാസിലും നമ്മൾ ഇത് കണ്ടു ഓവർലോഡ് ഫ്രാക്ചർ മെക്കാനിക്സ് ഇന്റെ പശ്ചാത്തലത്തിൽ പ്രയോജനകരമാണ് നമ്മൾ രണ്ട് വ്യത്യസ്ത തരം സാഹചര്യത്തിൽ നോക്കി ഒരു സാഹചര്യത്തിൽ ലോഡ് റിവേർസൽ മറ്റൊരു സാഹചര്യത്തിൽ പോസിറ്റീവ് ദിശയിൽ മാത്രമേ ഓവർലോഡ് ചെയ്തുള്ളു ഈ ഗ്രാഫ് കാണിച്ചത് നിങ്ങൾ ഒരു ദിശയിൽ മാത്രം ഓവർലോഡ് ചെയ്യുമ്പോൾ റിട്ടാർഡേഷൻ ഇഫക്റ്റ് വളരെ പ്രധാനമാണ് നേരെമറിച്ച് ലോഡ് റിവേർസൽ ഉണ്ടെങ്കിൽ റിട്ടാർഡേഷൻ ഉണ്ട് യഥാർത്ഥ വിള്ളൽ വളർച്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് അത്ര ഫലപ്രദമല്ല വാസ്തവത്തിൽ ഡിസൈനർമാർ ഇത് മറ്റൊരു സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കി അവർ നോക്കിയത് അവർ മർദ്ദപാത്രത്തിന്റെ പീരിയോഡിക് പ്രൂഫ് ടെസ്റ്റിംഗ് നടത്തുമ്പോൾ അത് അതിന്റെ ലൈഫ് ഇനെ സഹായിച്ചിട്ടുണ്ട് ഇത് ആനുകാലിക ഇടവേളകളിൽ അമിതഭാരം അവതരിപ്പിക്കുകയല്ലാതെ മറ്റൊന്നുമല്ല പ്രൂഫ് ടെസ്റ്റിംഗിൽ അത് അതിന്റെ 125 ശതമാനം വരെ പോകുന്നു ഇതാണ് ഫീൽഡ് നിരീക്ഷണം ഈ രംഗത്ത് നിങ്ങൾ കണ്ടതെന്തും നിങ്ങൾക്ക് ഒരു ന്യായീകരണം നേടാൻ കഴിയും ഓവർലോഡ് കാരണം വിള്ളലിന് സമീപം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ മനസിലാക്കുന്നു Residual സ്ട്രെസ് രൂപീകരണം കൊണ്ട് പൊതുവായ റിട്ടാർഡ് ക്രാക്കുകൾ എങ്ങനെ വളരുന്നുവെന്ന് നമ്മൾക്കു മനസ്സിലാകും Wheeler model ഇത് വീലർ ചെയ്തു അദ്ദേഹം ഒരു മോഡൽ നൽകി അതിനാൽ നിങ്ങൾ നോക്കേണ്ടത് ഇതാണ് അമിതഭാരം കണക്കിലെടുക്കുമ്പോൾ പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം വളരെ വലുതാണ് ഞാൻ ആനിമേഷൻ ആവർത്തിക്കാം ഇവിടെ നിങ്ങൾക്ക് ഒരു കൂട്ടം ഘട്ടങ്ങളുണ്ട് നിങ്ങൾക്ക് ഇവിടെയുള്ളത് എനിക്ക് ഇവിടെ ഒരു സൈക്ലിക് ലോഡ് ഉണ്ട് സാധാരണ ആംപ്ലിറ്റ്യൂഡിന് ഇടയിൽ അല്പം വലുപ്പമുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട് അത് നമ്മൾ ഒരു ഓവർലോഡായി പരിഗണിക്കും അതിനാൽ ഓവർലോഡിന്റെ തുടക്കത്തിൽ റെസിഡ്യൂള് സ്ട്രെസ് പാറ്റേൺ എങ്ങനെയെന്ന് നോക്കാം ഓവർലോഡിന് ശേഷം റെസിഡ്യൂള് സ്ട്രെസ് പാറ്റേൺ എങ്ങനെയാണ് ഒരു സൈക്കിൾ ന് ശേഷം എന്ത് സംഭവിക്കും ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ അതിന്റെ ഭംഗിയുള്ള ഒരു രേഖാചിത്രം തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നേട്ടത്തിനായി ഇത് ഉപകരിക്കും അതിനാൽ എനിക്ക് ഇവിടെയുള്ളത്എന്റെ കയ്യിൽ രണ്ടു സൂപ്പർഇമ്പോസ് ചിത്രങ്ങൾ ഉണ്ട് എന്റെ കയ്യിൽ പ്രാരംഭത്തിൽ ഉള്ള വിള്ളൽ നീളം ഉണ്ട് എന്റെ കയ്യിൽ പ്ലാസ്റ്റിക് സോണിന്റെ ഒരു ചെറിയ വലുപ്പം ഉണ്ട് ഒരു ഓവർലോഡ് ഉണ്ട് അതിനാൽ അമിതഭാരം കാരണം എന്താണ് സംഭവിച്ചത് വിള്ളൽ കുറച്ചു കൂടി നീളം കൂടി ചെറിയ ഡെൽറ്റ പ്ലസ് നിങ്ങൾക്ക് വലിയ വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് സോൺ ഉണ്ട് ശേഷിക്കുന്ന സ്ട്രെസ് പാറ്റേൺ ഇപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇതുപോലുള്ള ഒരു റെസിഡ്യൂള് കംപ്രഷൻ ഉണ്ട് മുമ്പത്തെ കേസിലും റെസിഡ്യൂള് കംപ്രസ്സീവ് സ്ട്രെസ് ഇതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓവർലോഡ് കാരണം വലിയ പ്ലാസ്റ്റിക് സോണിൽ നിന്ന് വിള്ളൽ പുറത്തുവരണം ആ ഘട്ടത്തിൽ വിള്ളൽ വളർച്ചാ നിരക്ക് മന്ദഗതിയിലാകുന്നു അതാണ് അതിന്റെ പിന്നിലെ ഭൌതികശാസ്ത്രം അതിനാൽ നിങ്ങൾക്ക് ലോഡിംഗും അൺലോഡിംഗും ഉണ്ടാകുമ്പോഴെല്ലാം റെസിഡ്യൂള് സ്ട്രെസ് രൂപം കൊള്ളുന്നു ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും എനിക്ക് ഒരു ചെറിയ ലോഡ് ഉണ്ട് അതിനുശേഷം ഒരു വലിയ ലോഡ് അതിനാൽ ഒരു ചെറിയ ലോഡിനായി നിങ്ങൾക്ക് ഒരു ചെറിയ വലുപ്പത്തിലുള്ള പ്ലാസ്റ്റിക് സോൺ ഉണ്ട് ഒരു വലിയ ലോഡിനായി ഒരു വലിയ പ്ലാസ്റ്റിക് സോൺ ഉണ്ട് അതിനാൽ ഒരു ഓവർലോഡിന് ശേഷം നിങ്ങൾക്ക് യഥാർത്ഥ ലോഡിംഗ് സാഹചര്യത്തിൽ വരുന്ന ഒരു ചെറിയ ലോഡ് മാത്രമേയുള്ളൂ അതിനാൽ ചെറിയ ലോഡ് ഒരു ചെറിയ വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് സോൺ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ എന്നാൽ ഈ പ്ലാസ്റ്റിക് സോൺ ഓവർലോഡ് പ്ലാസ്റ്റിക് സോണിനുള്ളിൽ തുടരും അതിനാൽ ഓവർലോഡ് പ്ലാസ്റ്റിക് സോണിനുള്ളിൽ വിള്ളൽ നിലനിൽക്കുന്നിടത്തോളം വിള്ളലിന്റെ വളർച്ചാ നിരക്ക് മന്ദഗതിയിലാകും നിങ്ങൾക്ക് ഒരു ക്വാണ്ടിറ്റേറ്റീവ് എസ്റിമേഷനും ആവശ്യമാണ് ഇവിടെ വീണ്ടും നമ്മൾ പാരീസ് നിയമത്തിലേക്ക് മടങ്ങുകയും അത് പരിഷ്കരിക്കുകയും ചെയ്യും പാരീസ് നിയമത്തിന്റെ ഭംഗി അദ്ദേഹത്തിന് കേർണൽ ലഭിച്ചു മറ്റുള്ളവർ വന്ന് അനുയോജ്യമായ രീതിയിൽ പരിഷ്ക്കരിച്ചു വിള്ളൽ അടയ്ക്കുന്നതിന് കണക്കിലെടുക്കുന്നതിന് ഡെൽറ്റ K ക്ക് പകരം ഡെൽറ്റ K എഫക്റ്റീവ് ഉപയോഗിക്കുക എന്ന് അവർ പറഞ്ഞു റിട്ടാർഡഡ് ക്രാക്ക് വളർച്ചയുടെ കാര്യത്തിൽ നമ്മൾക്കു മറ്റൊരു തരം മോഡൽ ഉണ്ടാകും ഈ കേസുകളിൽ ഓരോന്നിനും നമ്മൾക്കു ചിത്രങ്ങളുണ്ടാകും നമ്മൾ അത് കാണും അതിനാൽ നിങ്ങളുടെ പക്കലുള്ള മറ്റ് ചിത്രമാണിത് ഓവർലോഡ് പ്ലാസ്റ്റിക് സോൺ കാരണം തുടർന്നുള്ള വിള്ളൽ വളർച്ച മന്ദഗതിയിലാകുന്നു അതിനായി നിങ്ങൾക്ക് ഒരു ചിത്രമുണ്ട് ഞാൻ നിങ്ങൾക്കായി അത് സൂം ചെയ്യാം അതിനാൽ ചെറിയ ലോഡിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ കാണാം ഈ വിള്ളൽ മുന്നേറി ചെറിയ പ്ലാസ്റ്റിക് സോൺ ഉണ്ട് എന്നാൽ ഈ പ്ലാസ്റ്റിക് സോൺ ഓവർലോഡ് പ്ലാസ്റ്റിക് സോണിൽ തുടരുന്നു അതിനാൽ വിള്ളൽ വളർച്ചയുടെ നിരക്ക് മുമ്പത്തേതിനേക്കാൾ ഉയർന്നതായിരിക്കില്ല ഇത് ഇപ്പോൾ മന്ദഗതിയിലാണ് നിങ്ങൾക്കറിയാമോ ചിത്രത്തിൽ ഓവർലോഡിൽ ഒരു ചെറിയ വർദ്ധനവ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു വലിയ ഓവർലോഡ് ഉണ്ടെന്നു കരുതുക അപ്പോൾ വളരെ വലിയ പ്ലാസ്റ്റിക് സോൺ ഉണ്ടായിരിക്കും അമിതഭാരം കാരണം വലിയ പ്ലാസ്റ്റിക് മേഖലയിലൂടെ വിള്ളൽ വീഴേണ്ടിവരുമെന്നും വ്യക്തമാകും ചില കണക്കുകൂട്ടലുകൾ ആളുകൾ നടത്താറുണ്ട് റിട്ടാർഡേഷൻ കണക്കാക്കാൻ നമ്മൾ ഇത് പരിശോധിക്കും

പാരീസ് നിയമം അവർ പരിഷ്ക്കരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളും ഇത് കാണും ഞാൻ ഇത് നിങ്ങൾക്കായി വലുതാക്കാം നമ്മൾക്കു അത് പരിശോധിക്കാം da by dN എന്നത് R ന്റെ phi ആയി C ഡെൽറ്റ K പവർ m കൊണ്ട് ഗുണിക്കുന്നു സാധാരണ പാരീസ് നിയമത്തിൽ phi R ഉണ്ടാകില്ല കൂടാതെ Phi R നെ ഡെൽറ്റ a പ്ലസ് rp എന്നും നിർവചിക്കുന്നു 0 ഇട്ടു നിങ്ങൾ അതിനെ rpc ആയി എടുക്കുന്നു ഇത് ഒരു ടൈപ്പോഗ്രാഫിക്കൽ പിശകാണ് rp നോട്ട് കൊണ്ട് ഹരിക്കുന്നു നിങ്ങൾ ഇത് മാറ്റുക ഇത് മുഴുവൻ പവർ ഗാമയാണ് അതിനാൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൽ ഒരു ഓവർലോഡ് പ്ലാസ്റ്റിക് സോൺ നീളം ഉണ്ടാകും ചാക്രികത്തിനായി നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തും ഡെൽറ്റ a പ്ലസ് ചെയ്യുക അതാണ് ആർപിസി നിങ്ങൾ ഇത് rpc ആയി ഇട്ടു ഇത് r p ശൂന്യമായി എഴുതരുത് ഇത് ഇവിടെ ഒരു ടൈപ്പോഗ്രാഫിക്കൽ പിശകാണ് അതിനാൽ നിങ്ങൾക്ക് 1 ൽ താഴെയുള്ള ഒരു ഘടകം ഉണ്ടാകും ഇത് വളർച്ചാ നിരക്ക് മന്ദഗതിയിലാണെന്ന് സൂചിപ്പിക്കുന്നു ഈ അളവുകളുടെ ജ്യാമിതീയ പ്രാതിനിധ്യം എന്താണ് എന്നും നമ്മൾ കാണും അതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ക്രാക്ക് അക്ഷത്തിൽ ഓവർലോഡ് പ്ലാസ്റ്റിക് സോണിന്റെ നീളം എന്തായാലും rp എന്ന ഓവർലോഡ് ചിഹ്നമാണ് അതായത് o നൽകുന്നത് നിങ്ങൾക്ക് ഒരു സാധാരണ ചാക്രിക ലോഡ് ഉള്ളപ്പോൾ പ്ലാസ്റ്റിക് സോൺ ചെറുതാണ് ഞാൻ അതിനെ വലുതാക്കാൻ ശ്രമിക്കാമെന്ന് ഞാൻ കരുതുന്നു ഇത് സ്ക്രീനിനുള്ളിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ നിങ്ങൾക്കത് ഇവിടെയുണ്ട് അതിനാൽ ഈ പദങ്ങളുടെ നിർവചനം എന്റെ കയ്യിൽ ഉണ്ട് ഒരു സൈക്ലിക് ലോഡ് കാരണം ഒരു ചെറിയ ക്രാക്ക് ദൈർഘ്യ വിപുലീകരണം ഉണ്ടാകുന്നു അത് ഡെൽറ്റ a ആയി നൽകിയിരിക്കുന്നു ഓർക്കുക ഇവയെല്ലാം അതിശയോക്തി കലർന്ന ചിത്രങ്ങളാണ് യഥാർത്ഥ മാതൃക നോക്കുമ്പോൾ ഇവ വളരെ വളരെ ചെറുതാണ് വ്യക്തതയ്ക്കായിഅത് വലുതാക്കുന്നു നിങ്ങൾ അതിനെ ആ രീതിയിൽ ബഹുമാനിക്കണം അതിനാൽ നിങ്ങൾക്ക് ഇവിടെയുള്ളത് ഓവർലോഡിന്റെ അവസാനത്തിൽ നിങ്ങളുടെ പക്കലുള്ള പ്ലാസ്റ്റിക് സോൺ വലുപ്പം എന്താണ് ഓവർലോഡിന് ശേഷം വിള്ളലും അതിന്റെ പ്ലാസ്റ്റിക് സോൺ ഉം കാണിച്ചിരിക്കുന്നു മുമ്പത്തെ ഗ്രാഫ് ഇതിന് മുകളിൽ ഈ ഡയഗ്രാമിന്റെ സൂപ്പർപോസിഷൻ കാണിച്ചു ഇപ്പോൾ ഈ ഡയഗ്രമുകൾ പാരാമീറ്ററുകൾ കാണിക്കുന്നതിന് ഒന്നിനു പുറകെ ഒന്നായി വരയ്ക്കുന്നു നിങ്ങൾക്ക് ഡെൽറ്റ a പ്ലസ് ആർപിസി ലഭിക്കുന്നു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ a പ്ലസ് ആർപിസി ചേർക്കുന്നത് ആർപി നോട്ടിനെക്കാൾ ചെറുതായിരിക്കും ഇത് അമിതഭാരത്തിന്റെ നിലയെ ആശ്രയിച്ചിരിക്കുന്നു ഓവർലോഡ് വളരെ ഉയർന്നതാണെങ്കിൽ നിങ്ങൾക്ക് rp നോട്ട് എന്നതിന്റെ വലിയ മൂല്യമുണ്ടാകും അനുബന്ധ റിട്ടാർഡേഷനും കൂടുതലായിരിക്കും പാരീസ് നിയമം മാതൃകയാക്കിയതും പരിഷ്ക്കരിച്ചതും ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വീലേഴ്സ് മോഡലുണ്ട് അത് അമിതഭാരത്തിന്റെ ഫലമാണ് അതിനാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദയവായി ഈ പദപ്രയോഗത്തിൽ തിരുത്തൽ വരുത്തുക ഇത് ഡെൽറ്റ a പ്ലസ് ആർപിസിയെ ആർപി നോട്ട് കൊണ്ട് ഹരിക്കുന്നു ഇവിടെ ആർപി നോട്ട് ഓവർലോഡിനുള്ള പ്ലാസ്റ്റിക് സോൺ നീളവും ആർപിസി സാധാരണ സൈക്കിളുമാണ് രണ്ടും ഒന്നിനു പുറകെ ഒന്നായി കാണപ്പെടുമ്പോൾ ഇത് കാണിക്കുന്നു പ്ലാസ്റ്റിക് സോൺ ഇപ്പോഴും ഓവർലോഡ് പ്ലാസ്റ്റിക് സോണിനുള്ളിലാണ് ഇത് ക്രാക്ക് സാവധാനത്തിൽ തുടരാൻ കാരണമാകുന്നു ഗാമ്മക്ക് ഒരു പരിധി ഉണ്ട് ഗാമയുടെ മൂല്യം 0 ഉം 2 ഉം ക്രമീകരിക്കാവുന്ന കാലിബ്രേഷൻ ഘടകമാണ് അതിനാൽ ഇവിടെ നിങ്ങൾ വീണ്ടും അഭിനന്ദിക്കണം അടിസ്ഥാന കേർണൽ പാരീസ് നിയമമാണ് അത് റിട്ടാർഡഡ് ക്രാക്ക് വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പരിഷ്ക്കരിച്ചിരിക്കുന്നു ഇത് വീണ്ടും വർദ്ധിക്കുന്ന വിള്ളലിന്റെ നീളവും അതത് പ്ലാസ്റ്റിക് സോൺ വലുപ്പങ്ങളും കണക്കിലെടുക്കുന്നു നിങ്ങൾക്കറിയാമോ ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടതുണ്ട് ഫാറ്റിഗ് ക്രാക്ക് വളർച്ചാ കണക്കുകൂട്ടലുകളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒരു പൊതുഘടന അതിന്റെ ആയുസ്സിൽ ഒരു വേരിയബിൾ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗ് അനുഭവിക്കുന്നു നിങ്ങൾക്കറിയാമോ ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഇത് ഒഴിവാക്കാനാവില്ല ടെക്സ്റ്റ് ബുക്ക് കാഴ്ചപ്പാടിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഒരു നല്ല സിനുസോയ്ഡൽ ലോഡിംഗ് ഉണ്ടാകും നിങ്ങൾ റോറ്റെറ്റിങ് ബെൻഡിങ് ടെസ്റ്റ് നടത്തുമ്പോൾ എൻഡ്യൂറൻസ് ലിമിറ്റ് വിലയിരുത്തുന്നതിനായി മാത്രമുള്ള ഒരു സിനുസോയ്ഡൽ ലോഡിംഗ് മാത്രമേ നിങ്ങൾ അനുകരിക്കുകയുള്ളൂ എല്ലാ പ്രായോഗിക ഘടനകളിലും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് വേരിയബിൾ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗ് ഒരു ലോഡ് സ്പെക്ട്രം എങ്ങനെ സ്ഥാപിക്കാം എന്നതാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ഭാഗം കപ്പലുകളുടെ കാര്യത്തിൽ തിരമാലകൾ അതിൽ പൊരുതുന്നതായി നിങ്ങൾ കാണുന്നു ഏത് തരത്തിലുള്ള തരംഗഭാരം ഉണ്ടായാലും അത് വളരെ ക്രമരഹിതമാണ് ഇത് അന്തരീക്ഷാവസ്ഥയെയും മറ്റും ആശ്രയിച്ചിരിക്കുന്നു കപ്പൽ ഏത് വേഗതയിലാണ് സഞ്ചരിക്കുന്നത് നിരവധി ഘടകങ്ങളുണ്ട് അതിനാൽ ലോഡ് സ്പെക്ട്രം കണ്ടെത്തുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ ജോലി ആണ് ഇത് നിസ്സാരമല്ല നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം സ്മാൾ സ്കെയിൽ യീൽഡിങ് സാഹചര്യങ്ങളിൽ നിരന്തരമായ ആംപ്ലിറ്റൂഡ് കാരണം വിള്ളൽ വളർച്ച വിലയിരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെ നന്നായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു മറ്റ് ഇഫക്റ്റുകൾ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വിള്ളൽ വളർച്ചാ നിരക്ക് കണ്ടെത്തുക സ്ഥിരമായ ആംപ്ലിറ്റൂഡ് ഇൽ കുറഞ്ഞത് നിങ്ങളുടെ സിദ്ധാന്തങ്ങൾ പരിശോധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ലബോറട്ടറിയിലെ ചില പരിശോധനകൾ അനുകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പരാജയം എപ്പോൾ സംഭവിക്കുമെന്ന് എന്റെ സിദ്ധാന്തം പ്രവചിക്കണം അത്തരം പരിശോധനകൾ ഒരു പ്രശ്നവുമില്ല നിരന്തരമായ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗിൽ പോലും വിള്ളൽ അടയ്ക്കൽ ഉണ്ടാകാമെന്ന് നമ്മൾ കണ്ടു ഓവർലോഡ് ഇഫക്റ്റ് ഉണ്ടാകാം നിങ്ങൾക്കത് ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ കണക്കുകൂട്ടലുകൾ പരിഷ്ക്കരിക്കേണ്ടതുണ്ട് ഇത് ലളിതമല്ല അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് വിള്ളൽ വളരുമ്പോൾ ജ്യാമിതി ഘടകം വിലയിരുത്തുന്നു നോക്കൂ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിനെ ഞങ്ങൾ K എന്നാൽ ബീറ്റാ ടൈംസ് സിഗ്മ റൂട്ട് പൈയ്ക്ക് തുല്യമായി കണ്ടു ജ്യാമിതിയെ ആശ്രയിച്ചിരിക്കുന്ന ഒരു പാരാമീറ്ററാണ് ബീറ്റ എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ടാകുകയും വിള്ളൽ വളരാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ a ബൈ w അനുപാതം മാറിക്കൊണ്ടിരിക്കും a ബൈ w അനുപാതം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രേണിയിലെ നിരവധി പദങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ സ്ട്രെസ് തീവ്രത ഘടകം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ കൈ കണക്കുകൂട്ടൽ നിരസിക്കപ്പെടുന്നു യാഥാർത്ഥ്യവുമായി കൂടുതൽ അടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ ആശ്രയിക്കണം നിങ്ങൾക്ക് കൈ കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിയില്ല എന്ത് സമവാക്യങ്ങൾ ഉപയോഗിക്കണമെന്ന് മനസിലാക്കാൻ മാത്രമേ കൈ കണക്കുകൂട്ടലുകൾ ഉപയോഗപ്രദമാകൂ അതിനപ്പുറം അവർ നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല അതിനാൽ ആദ്യത്തെ കാര്യം എന്തെന്നാൽ വിള്ളൽ വളരുന്നതിനനുസരിച്ച് നിങ്ങൾ ബീറ്റ എന്ന ഘടകം കണ്ടെത്തേണ്ടതുണ്ട് അതാണ് ജ്യാമിതി ഘടകം എന്ന് പരാമർശിക്കുന്നത് തുടർന്ന് നിങ്ങൾ ക്രാക്ക് ക്ലോസറിനെ മാതൃകയാക്കണം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓവർലോഡുകളുടെ പ്രഭാവവും കഴിഞ്ഞ ക്ലാസിലോ മുൻ ക്ലാസിലോ പാരിസ്ഥിതിക സാഹചര്യങ്ങളുടെ സ്വാധീനം നമ്മൾ കണ്ടു നിങ്ങൾക്ക് വാതക പരിസ്ഥിതി അല്ലെങ്കിൽ ദ്രാവക പരിസ്ഥിതി ഉള്ളപ്പോൾ വിള്ളൽ വളർച്ചാ നിരക്ക് വ്യത്യസ്തമായിരിക്കും അതിനാൽ ഇത് എങ്ങനെ മാതൃകയാക്കാം നിങ്ങൾക്ക് നിരന്തരമായ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗ് ഉള്ളപ്പോൾ പോലും ഈ പ്രശ്നങ്ങൾ നടപ്പിലാക്കാൻ വളരെ പ്രയാസമാണ് അതിനാൽ നിരന്തരമായ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗിന്റെ കാര്യത്തിലും അത് ഒരു വെല്ലുവിളി ഉയർത്തുന്നു അതിനാൽ നിങ്ങൾ അത്യാധുനിക കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ ആശ്രയിക്കണം സാഹിത്യത്തിന് അത്തരം സോഫ്റ്റ്വെയർ ഉണ്ട് നമുക്ക് അവയെക്കുറിച്ച് ഒരു ഹ്രസ്വ വീക്ഷണവും ഉണ്ടാകും ഞാൻ സൂചിപ്പിച്ചതുപോലെ വേരിയബിൾ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗ് വളരെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും നിങ്ങൾ ഇവിടെ കാണുന്നത് വേരിയബിൾ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗിന് കീഴിൽ സമാനത വ്യവസ്ഥകൾ സാധുവായിരിക്കില്ല നമ്മൾക്കു ബുദ്ധിമുട്ട് നേരിടുമ്പോഴെല്ലാം നമ്മൾക്കറിയാം നമ്മൾ ആദ്യം ഒരു ലളിതമായ മോഡലുമായി പുറത്തുവരും സമാനമായ അവസ്ഥകൾ അനുമാനിക്കുന്നുവെങ്കിൽ ലളിതമായ ഒരു മാതൃക ഈ രൂപത്തിലെന്നപോലെ എഴുതാം dN കൊണ്ട് da എഴുതുന്നതിനുപകരം നമ്മൾ da bar എന്ന് d N കൊണ്ട് ഹരിക്കുന്നു ഇവിടെ a bar ശരാശരി ക്രാക്ക് വളർച്ചാ നിരക്ക് ആണ് എനിക്ക് വ്യത്യസ്ത സൈക്കിൾസ് ഉണ്ട് ഡെൽറ്റ K ഒരു സൈക്കിളിന്റെ പ്രവർത്തനഭാഗം ആണ് അതിനാൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് വ്യത്യസ്ത ആംപ്ലിറ്റ്യൂഡുകൾ ഉണ്ട് ഓരോ ആംപ്ലിറ്റ്യൂഡിനും നിങ്ങൾ ഇത് ഇതുപോലെ സംഗ്രഹിക്കുന്നു ഡെൽറ്റ K i പവർ m ആയി N i കൊണ്ട് ഗുണിച്ചാൽ മതി എനിക്ക് ആകെ ഉള്ള സൈക്കിളുകളുടെ എണ്ണം N total ആണ് ഈ പദപ്രയോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ശരാശരി വിള്ളൽ വളർച്ചാ നിരക്ക് നേടാൻ കഴിയും ഇത് ഒരു ഏകദേശമാണ് നിങ്ങൾ നൽകിയ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഏകദേശ കണക്ക് എത്രത്തോളം സാധുതയുള്ളതാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് സമീപകാല സംഭവവികാസങ്ങൾക്കായി ശ്രോതാവോ വായനക്കാരനോ ഈ വിഷയത്തെക്കുറിച്ചുള്ള നൂതന പുസ്തകങ്ങളെയും ജേണലുകളിലെ നിലവിലെ സാഹിത്യത്തെയും സമീപിക്കാൻ അഭ്യർത്ഥിക്കുന്നു വേറെ വഴിയില്ല വിള്ളൽ വളർച്ചാ നിരക്ക് പ്രവചിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ഉപയോഗക്ഷമത കാണുന്നത് നിങ്ങൾ ശരിക്കും ഒരു വിശകലനം നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലളിതമായ കൈ കണക്കുകൂട്ടൽ സഹായിക്കില്ല നിരന്തരമായ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗിനായി സമവാക്യങ്ങൾ മനസിലാക്കാൻ ഇത് നിങ്ങൾക്ക് ഒരുതരം പ്രോത്സാഹനം നൽകിയേക്കാം ഏതൊരു റിയലിസ്റ്റിക് കണക്കുകൂട്ടലിനും നിങ്ങൾ അത്യാധുനിക സോഫ്റ്റ്വെയറിനെ ആശ്രയിക്കണം നമ്മൾക്കും അവ പരിശോധിക്കാം അതിനാൽ നിങ്ങളുടെ പക്കലുള്ളത് നിങ്ങൾക്ക് നാസയുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അത് നാസ്ഗ്രോ 3 0 എന്നറിയപ്പെടുന്നു 2000 ലാണ് ഇത് പുറത്തിറങ്ങിയത് ടെക്സസിലെ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ ഉദ്യോഗസ്ഥരാണ് ഇത് വികസിപ്പിച്ചെടുത്തത് നിങ്ങൾക്ക് ജോൺസൺ ബഹിരാകാശ കേന്ദ്രമുണ്ട് ഹൂസ്റ്റണിൽ ഇതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് സോഫ്റ്റ്വെയറിൽ മൂന്ന് പ്രധാന മൊഡ്യൂളുകൾ അടങ്ങിയിരിക്കുന്നു NASFLA NASBEM NASMAT ഓരോരുത്തരും മുഴുവൻ സോഫ്റ്റ്വെയർ പാക്കേജിന്റെയും വ്യത്യസ്ത വശങ്ങൾ നിർവ്വഹിക്കുന്നു NASFLA ഫാറ്റീഗ് വിശകലനം നടത്തുന്നു നോക്കൂ ഫാറ്റീഗ് വളരെ വളരെ ഉൾപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഫാറ്റീഗ് ഇനെകുറിച്ചും സൈക്കിളുകളുടെ എണ്ണം എങ്ങനെ കണക്കാക്കാമെന്നും എഴുതിയ പുസ്തകങ്ങളും കൈപ്പുസ്തകങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇതെല്ലാം വളരെ സൂക്ഷ്മമായ പ്രശ്നങ്ങളാണ് അത്തരം സാഹിത്യങ്ങളെ നിങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് ഈ വേരിയബിളുകളെല്ലാം NASFLA ഉൾക്കൊള്ളുന്നു വളരെ സങ്കീർണ്ണമായ മോഡലുകൾ ലിസ്റ്റുചെയ്തിട്ടുണ്ട് ഇവയെല്ലാം ഇതിൽ ഉൾച്ചേർത്തിരിക്കുന്നു സ്ട്രെസ് അനാലിസിസ് കണക്കുകൂട്ടലുകൾ NASBEM നടത്തുന്നു വ്യക്തമായും നിങ്ങൾക്ക് ഒരു വലിയ മെറ്റീരിയൽ ബേസ് ആവശ്യമാണ് അത് NASMAT നൽകുന്നു പാരീസ് നിയമം അനുഭവസമ്പന്നമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇത് സിദ്ധാന്തത്തിൽ നിന്ന് വികസിച്ചതല്ല നിങ്ങൾക്ക് ഡാറ്റയുണ്ട് നിങ്ങൾ ഒരു കർവ് ഫിറ്റിംഗ് ചെയ്യുന്നു മെറ്റീരിയലുകളുടെ കുടുംബം നിങ്ങൾ സമഗ്രമായ വിള്ളൽ വളർച്ചാ ഡാറ്റ വികസിപ്പിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് നിങ്ങൾ കോൺസ്റ്റന്റ്സ് കണ്ടെത്തുന്നു നിങ്ങൾക്ക് C ഡെൽറ്റ K പവർ m ഉള്ളപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു നമ്മൾ അത് പാരീസ് നിയമത്തിൽ ഉപയോഗിക്കുന്നു ഫോർമാൻ നിയമത്തിലും നമ്മൾ സമാനമായ ഒരു ഫോം ഉപയോഗിക്കുന്നു അതേ C മൂല്യം ഉപയോഗിക്കരുതെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ C m എന്നിവയിൽ നിന്നും ഫോർമാൻ നിയമം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ ഡാറ്റാ ബേസിലേക്ക് പോകണം അതിനാൽ ഈ ഫാറ്റീഗ് വളർച്ചാ കണക്കുകൂട്ടലിന്റെ ഏതെങ്കിലും ഒരു വിജയം നിങ്ങളുടെ പക്കലുള്ള വിശാലമായ മെറ്റീരിയൽ ഡാറ്റാ ബേസിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ മെറ്റീരിയൽ ഡാറ്റ ബേസ് വളരെ പ്രധാനമാണ് അതിനാൽ ഏത് തരത്തിലുള്ള മെറ്റീരിയലുകൾ ആണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ചു നിങ്ങൾക്ക് വളർച്ചാ കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ പ്രോഗ്രാമിൽ ഉപയോഗിച്ച ഫാറ്റീഗ് ക്രാക്ക് വളർച്ചാ മാതൃക എന്താണ് എന്നുവച്ചാൽ ഫോർമാൻ സമവാക്യത്തിന്റെ ഒരു വ്യതിയാനം ആണ് നോക്കൂ നമ്മൾ പാരീസ് നിയമം നോക്കിയിരുന്നു മേഖല 3 നുള്ള പാരീസ് നിയമത്തിന്റെ പരിഷ്ക്കരണം ഫോർമാൻ നൽകിയിട്ടുണ്ട് NASGRO ശരിക്കും ഇതിന്റെ ഒരു സവിശേഷത ഉപയോഗിക്കുന്നു അത് ഇതിന്റെ പരിഷ്ക്കരണം ആണ് ഞാൻ സമവാക്യങ്ങളിൽ പ്രവേശിക്കുന്നില്ല ക്രാക്ക് ഗ്രോത്ത് റേറ്റ് മോഡലിന് വൈവിധ്യമാർന്ന മോഡലുകൾക്ക് ഗണ്യമായ വഴക്കമുണ്ട് മെറ്റീരിയലുകൾക്ക് അങ്ങനെയാണ് അവർ തിരഞ്ഞെടുത്തത് പ്രോഗ്രാമിൽ ധാരാളം ക്രാക്ക് കേസുകൾക്കുള്ള SIF ബന്ധങ്ങൾ അടങ്ങിയിരിക്കുന്നു നിങ്ങൾ കൈപുസ്തകം പരാമർശിച്ച് സമവാക്യത്തിൽ ഇടുന്നതിനുപകരം നിങ്ങൾക്ക് ഒരു ഡാറ്റാബേസ് ഉണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം കാരണം ഇത് അവരുടെ സ്വന്തം ഉപയോഗത്തിനായി നാസ വികസിപ്പിച്ചതാണ് അതിനാൽ സോഫ്റ്റ്വെയർ എങ്ങനെ വികസിപ്പിച്ചെടുത്തു എന്നതിന്റെ എല്ലാ സൂക്ഷ്മതകളും ഒരു ഉപയോക്താവ് അറിയേണ്ടതില്ല കുറഞ്ഞത് സോഫ്റ്റ്വെയറിന്റെ പരിമിതികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയൂ അതിനാൽ ക്രാക്ക് ഗ്രോത്ത് റേറ്റ് മോഡലിന് വൈവിധ്യമാർന്ന മെറ്റീരിയലുകൾ മാതൃകയാക്കാൻ ഗണ്യമായ വഴക്കമുണ്ട് പ്രോഗ്രാമിൽ ധാരാളം ക്രാക്ക് കേസുകൾക്കുള്ള SIF ബന്ധങ്ങളും അടങ്ങിയിരിക്കുന്നു അത് നിങ്ങളുടെ പരിശ്രമത്തെ ലളിതമാക്കുന്നു അനുഭവസമ്പന്നമായ കർവ് ഫിറ്റിംഗ് സ്ഥിരാങ്കങ്ങളുടെ ഒരു വലിയ ഡാറ്റാബേസും ഇതിന് ഉണ്ട് നോക്കൂ നിങ്ങൾ ഫോർമാൻ സമവാക്യത്തിലേക്ക് പോകുമ്പോൾ ഇത് പരിഷ്ക്കരിക്കാൻ പോകുമ്പോൾ സ്ഥിരതകളുടെ എണ്ണവും വ്യത്യാസപ്പെടാം അതിനാൽ നിങ്ങൾക്ക് അനുഭവസമ്പന്നമായ കർവ് ഫിറ്റിംഗ് സ്ഥിരാങ്കങ്ങളുടെ സമഗ്രമായ സെറ്റ് ആവശ്യമാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് അർത്ഥവത്തായ വിള്ളൽ വളർച്ചാ പ്രവർത്തനം നടത്താൻ കഴിയില്ല അത് അങ്ങനെ ചെയ്തു നിങ്ങൾ നോക്കുകയാണെങ്കിൽ NASFLA മൊഡ്യൂളിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇതിന് ഇനിപ്പറയുന്ന കണക്കുകൂട്ടൽ ഓപ്ഷനുകൾ നൽകാൻ കഴിയും ഇതിന് നേരിട്ടുള്ള ജീവിത പ്രവചനങ്ങൾ നടത്താൻ കഴിയും പ്രോഗ്രാം ഗുരുതരമായ ന്യൂനത വലുപ്പം കണക്കാക്കുന്നു നൽകിയ പ്രാരംഭ ക്രാക്ക് വലുപ്പത്തിന് പരാജയപ്പെടാനുള്ള സൈക്കിളുകളുടെ എണ്ണം നിർണ്ണയിക്കുന്നു ഇത് നേരിട്ടുള്ള കണക്കുകൂട്ടലാണ് ഏതെങ്കിലും ഫ്രാക്ചർ മെക്കാനിക്സ് കണക്കുകൂട്ടലിൽ ഇത് അടിസ്ഥാനമാണ് ഇതിനുപുറമെ അനുവദനീയമായ ലോഡ് വിശകലനവും ഇത് നൽകുന്നു പ്രോഗ്രാം ചെയ്യുന്നത് ഒരു നിശ്ചിത പ്രാരംഭ അന്തിമ വിള്ളൽ വലുപ്പങ്ങൾക്കായി ഒരു നിശ്ചിത ഫാറ്റീഗ് ലൈഫ് നേടുന്നതിന് അനുവദനീയമായ പരമാവധി ലോഡ് ഘടകങ്ങളെ ഇത് കണക്കാക്കുന്നു അതിനാൽ ഇത് രൂപകൽപ്പനയിൽ ശരിക്കും സഹായിക്കുന്നു നോക്കൂ നിങ്ങൾക്ക് അനന്തമായ ജീവിതത്തിനായി ഒരു ഘടകവും ആവശ്യമില്ല പരിമിതമായ ജീവിതത്തിനായി നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനാൽ നിങ്ങൾ നിർണ്ണായകമായ ഒരു വിള്ളൽ വലുപ്പം കണക്കാക്കുന്നു പ്രാരംഭ വിള്ളൽ വലുപ്പം കണക്കാക്കുന്നു നിങ്ങൾക്ക് എത്രത്തോളം ലോഡിംഗ് ചെയ്യാൻ കഴിയുമെന്ന് ഇത് നിങ്ങളോട് പറയുന്നു അതിനാൽ ഇത് നിങ്ങളുടെ ഡിസൈൻ സാഹചര്യത്തെ സഹായിക്കുന്നു അതിനാൽ ഇതിന് നേരിട്ടുള്ള ജീവിത പ്രവചനങ്ങൾ നടത്താൻ കഴിയും ഇതിന് അനുവദനീയമായ ലോഡ് വിശകലനം ചെയ്യാനും കഴിയും കൂടാതെ നമുക്ക് ആവശ്യമുള്ള മൂന്നാമത്തെ വശം എന്താണ് എങ്ങനെ പരിശോധിക്കണമെന്ന് അറിയേണ്ടതുണ്ട് ഏത് ആനുകാലിക ഇടവേളകളിലാണ് നിങ്ങൾ പോയി പരിശോധിക്കേണ്ടത് NASFLA ഇൽ ഇത് സാധ്യമാണ് അത് മറ്റൊരു രീതിയിൽ ചെയ്യുന്നു പരിശോധന പരിധി കണക്കുകൂട്ടലുകൾക്കായി നിങ്ങൾക്ക് മൊഡ്യൂൾ ഉണ്ട് ഇതിൽ നിങ്ങൾ ചെയ്യുന്നത് പ്രോഗ്രാം ആവർത്തന വലുപ്പം കണക്കാക്കുന്നു തന്നിരിക്കുന്ന നിർണായക വിള്ളൽ വലുപ്പം പ്രയോഗിച്ച ലോഡുകൾ മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഫാറ്റീഗ് ലൈഫ് എന്നിവ പരാജയപ്പെടുന്നതിന് കാരണമാകും അതിനാൽ നിങ്ങൾ പിന്നിലേക്ക് പ്രവർത്തിക്കുന്നു പരാജയം നിങ്ങൾ വ്യക്തമാക്കുന്നു നിങ്ങൾ ലോഡും വ്യക്തമാക്കുന്നു നിങ്ങൾ സൈക്കിളും വ്യക്തമാക്കുന്നു നിങ്ങൾ തിരികെ പോയി കണക്കാക്കുക ഏത് യഥാർത്ഥ ന്യൂനതയാണ് ഇതിന് കാരണമാകുന്നത് അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പരിശോധന പരിധി തീരുമാനിക്കാൻ കഴിയും അതിനാൽ ഇത് തികച്ചും സമഗ്രമാണ് നിങ്ങൾക്ക് നേരിട്ടുള്ള ജീവിത കണക്കാക്കൽ നടത്താൻ കഴിയും അനുവദനീയമായ ലോഡ് ഘടകങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും അവസാനമായി നിങ്ങൾക്ക് പരിശോധന പരിധി കണക്കുകൂട്ടലുകളും കണ്ടെത്താനാകും

നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഈ കണക്കുകൂട്ടലുകളെല്ലാം ചെയ്യുമ്പോൾ പ്രാരംഭ ഫ്ലോ സൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം പൊതുവായ പരിശീലനം നിങ്ങൾ ഉപയോഗിക്കുന്ന NDT രീതിയെ ആശ്രയിച്ച് നിങ്ങൾക്ക് കുറഞ്ഞത് കുറവുള്ള ഫ്ലോ സൈസ് ലഭിക്കും എന്നാൽ ഈ ഡാറ്റാബേസ് നൽകുന്നത് ബഹിരാകാശ ഫ്ലൈറ്റ് ഹാർഡ്വെയറിന് സ്വീകാര്യമായ ഏറ്റവും കുറഞ്ഞ ന്യൂനത വലുപ്പങ്ങൾ ഇത് നൽകുന്നു ഇത് നാസ വികസിപ്പിച്ചതിനാൽ ബഹിരാകാശ പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നു അത് അതിനാൽ അവർക്ക് കുറഞ്ഞ ഫ്ലോ സൈസ് ആണ് ശുപാർശ ചെയ്യുന്ന ഫ്ലോ സൈസ് പരിശോധന രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന NDT രീതിശാസ്ത്രം എന്തുതന്നെയായാലും അതിന് അന്തർലീനമായ ചില കഴിവുകളുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒരു നിശ്ചിത തലത്തിൽ താഴേക്ക് പോകാൻ കഴിയില്ല അതിനാൽ ശുപാർശയിൽ ഉൾപ്പെടുത്തണം നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന NDT യുടെ രീതി എന്താണ് എന്ന് അതിനാൽ ഇത് നിരവധി ഘടകങ്ങളുടെ സംയോജനമാണ് അതിനാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല പ്രാരംഭ ഫ്ലോ സൈസ് എന്താണ് പ്രോഗ്രാമിന് ഒരു ഡാറ്റാബേസ് ഉണ്ട് അത് കുറഞ്ഞ ഫ്ലോ സൈസ് തരും നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് NASGRO മാത്രം അല്ല ഉള്ളത് നിങ്ങൾക്ക് AFGROW പതിപ്പ് 4 0 ഉം ഉണ്ട് അതിന്റെ ഉപയോക്തൃ മാനുവൽ 1999 ൽ ഹാർട്ടർ നൽകി ഇത് യുഎസ് വ്യോമസേന വികസിപ്പിച്ചെടുത്തു ഈ പ്രോഗ്രാം കൂടുതൽ ഉപയോക്തൃ സൌഹൃദമാണെങ്കിലും NASGRO യെക്കാൾ സമഗ്രമാണ് നോക്കൂ വ്യക്തമായും ഫീൽഡിൽ ഉപയോക്തൃ സൌഹൃദ പ്രോഗ്രാം നടത്താൻ ആളുകൾ ആഗ്രഹിക്കുന്നു ഇത് വികസിപ്പിച്ചെടുത്തത് വ്യോമസേന ഉദ്യോഗസ്ഥരാണ് അതിനാൽ ഇത് വിമാന വ്യവസായത്തിന് അനുസൃതമായി നിർമ്മിച്ചതാണ് അതിനാൽ അത് ബഹിരാകാശ വ്യവസായത്തിലേക്ക് ഉപയോഗിക്കപ്പെടുന്നു അതിനാൽ ആ വ്യത്യാസം നിങ്ങൾ കാണും ഇത് NASGROയുടെ ഡാറ്റാ ബേസ് NASMAT ഉപയോഗിക്കുന്നു പക്ഷേ ഫാറ്റിഗ് മോഡലിംഗ് ചെയ്യുന്നതിന് വ്യത്യസ്ത ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ ഇത് ഒരു അധിക സവിശേഷതയാണ് NASGROW ഇൽ കാണാത്ത എയർക്രാഫ്റ്റുകളിൽ കാണാൻ സാധ്യതയുള്ള ചില ക്രാക്ക് കേസുകൾ AFGROW ന് ഉണ്ട് ഇത് തികച്ചും വ്യക്തമാണ് ഇത് വീണ്ടും ഉപയോക്തൃ അധിഷ്ഠിതമാണ് അതിനാൽ വിമാന വ്യവസായത്തിലെ ആളുകൾ ഏതുതരം വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിമാനങ്ങളുടെ കാര്യത്തിൽ ഏതുതരം ലോഡിംഗ് പ്രതീക്ഷിക്കുന്നു എന്നീ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അതിനാൽ ഇവ AFGROW ന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് AFGROW ന്റെ മറ്റൊരു നേട്ടം ഇത് സ്പ്രെഡ്ഷീറ്റുകളുമായി പൊരുത്തപ്പെടുന്നു എന്നതാണ് അതിനാൽ ഡിസൈൻ കണക്കുകൂട്ടലുകളിൽ സംയോജിപ്പിക്കാൻ എളുപ്പമാണ് എനിക്കറിയാം എനിക്ക് വ്യവസായത്തിൽ നിന്നുള്ള ചില വിദ്യാർത്ഥികൾ ഉണ്ട് ഒരു ഡിസൈൻ രംഗം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അവർ പോയി ഒരു സോഫ്റ്റ്വെയർ എഴുതുകയില്ല അവർ വേഗം പോയി സ്പ്രെഡ്ഷീറ്റ് ഇടുന്നു സ്പ്രെഡ്ഷീറ്റിൽ അവ വളരെ സുഖകരമാണ് അവർ സോഫ്റ്റ്വെയറിനടുത്ത് പോകില്ല അവർക്ക് എല്ലാ കണക്കുകൂട്ടലുകളും ഒരു സ്പ്രെഡ്ഷീറ്റായി ചെയ്യാൻ കഴിയും അതിനാൽ അത് മനസ്സിൽ വച്ചുകൊണ്ട് സ്പ്രെഡ്ഷീറ്റുകളുമായി പൊരുത്തപ്പെടുന്ന തരത്തിലാണ് AFGROW നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ഒരു ഡിസൈൻ ഓഫീസിൽ ഇത് വളരെ ഉപയോഗപ്രദമായ ഉപകരണമാണ് ചുരുക്കത്തിൽ നമുക്ക് നോക്കാം ഇതുവരെ നാം കണ്ട അനുഭവങ്ങളുടെ ഫാറ്റീഗ് ഗ്രോത്ത് മാതൃകകൾ എന്തൊക്കെയാണ് പാരീസ് നിയമം നമ്മൾ കണ്ടു അത് ഏറ്റവും ലളിതമാണ് C ഡെൽറ്റ K പവർ m ന് തുല്യമായ da by dN ഉണ്ട് K പരിധി കണക്കാക്കുന്ന ഡൊണാഹ്നു മറ്റുള്ളവരും നമ്മൾ കണ്ടു അതാണ് I II മേഖലകൾ ഡെൽറ്റ K മൈനസ് ഡെൽറ്റ K ത്രെഷോൾഡ് മുഴുവൻ പ C ക്ക് തുല്യമായ ഡിഎൻ വഴി ഇത് നൽകിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഫോർമാൻ നിയമം ഉണ്ട് വിള്ളൽ വളർച്ച കണക്കുകൂട്ടലിനായി വിപുലമായ സോഫ്റ്റ്വെയറിൽ ഫോർമാൻ നിയമത്തിന്റെ ഒരു വ്യതിയാനം ഉപയോഗിക്കുന്നതായി നമ്മൾ കണ്ടു ഇത് മേഖല II നും മേഖല III നും മികച്ചതാണ് നിങ്ങൾക്ക് C ഡെൽറ്റ K പവർ n ന് തുല്യമായ dN ഉണ്ട് 1 മൈനസ് R കൊണ്ട് ഗുണിച്ചാൽ K C മൈനസ് ഡെൽറ്റ K പിന്നെ നിങ്ങൾക്ക് dN തുല്യമായ C 1 മുതൽ പ്ലസ് ബീറ്റ പവർ m വരെ ഡെൽറ്റ K മൈനസ് ഡെൽറ്റ K ത്രെഷോൾഡ് മുഴുവൻ പവർ n ഡിവൈഡഡ് ബൈ K C മൈനസ് 1 പ്ലസ് ബീറ്റയെ ഡെൽറ്റ K കൊണ്ട് ഗുണിച്ചാൽ ഇത് മേഖല I മേഖല II മേഖല III എന്നിവയ്ക്ക് കാരണമാകുന്നു ഇത് എർദോഗനും രത്വാനിയും ചേർന്നാണ് നിർമ്മിച്ചത് അതിനാൽ വിവിധ പ്രദേശങ്ങൾ കണക്കാക്കാനുള്ള അടിസ്ഥാന പാരീസ് നിയമത്തിന്റെ എല്ലാ വ്യതിയാനങ്ങളും ഇവയാണ് വ്യത്യസ്ത ഇഫക്റ്റുകൾക്കായി ഇത് എങ്ങനെ പരിഷ്കരിക്കാമെന്ന് നമുക്ക് നോക്കാം എൽബർട്ട് അവതരിപ്പിച്ച ക്രാക്ക് ക്ലോഷ്യർ ഉണ്ട് C ഡെൽറ്റ K തുല്യമായ da ബൈ dN നിങ്ങൾക്ക് ഫലപ്രദമാണ് വീലർ അവതരിപ്പിച്ച ഒരു റിട്ടാർഡേഷൻ ഇഫക്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇത് da ബൈ d N ആയി ഫൈ R C ഡെൽറ്റ K പവർ m എന്നതിന് തുല്യമാണ് ഇവിടെ ഫൈ R റിട്ടാർഡേഷൻ പാരാമീറ്ററാണ് വേരിയബിൾ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരാശരി ക്രാക്ക് ഗ്രോത്ത് റേറ്റ് da ബാർ കണക്കാക്കാം dN C യ്ക്ക് തുല്യമായി N ടോട്ടൽ സിഗ്മ 1 മുതൽ N ഡെൽറ്റ K മുഴുവൻ പവർ mഇനെ Ni കൊണ്ട് ഗുണിച്ചാൽ അടിസ്ഥാന പാരീസ് നിയമം നോക്കിയ ശേഷം വളരെ വലുതാണെങ്കിൽ ആളുകളും നിര്ദേശിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് സോൺ വലുപ്പം C ഡെൽറ്റ J പവർ m എന്നതിന് തുല്യമായ dN ഉപയോഗിച്ച് നിങ്ങൾക്ക് കണക്കാക്കാം ഇവിടെ J ഒരു J ഇന്റഗ്രൽ ആണ് വാസ്തവത്തിൽ അടുത്ത ക്ലാസ്സിൽ J എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും അതിനാൽ ഇവയെല്ലാം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അടിസ്ഥാന പാരീസ് നിയമത്തിന്റെ പരിഷ്കാരങ്ങളാണ് അതിനാൽ കോഴ്സിന്റെ ഈ ഭാഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിവിധ സാഹചര്യങ്ങളിൽ വിള്ളൽ വളർച്ചാ നിരക്ക് കണ്ടെത്തുന്നതിനുള്ള രീതിശാസ്ത്രം ഇത് നൽകുന്നു നിങ്ങൾക്ക് വിവിധ ആളുകൾ നിർദ്ദേശിച്ച നിയമങ്ങളുണ്ട് പഠനത്തിലെ മെറ്റീരിയലിനായി നിങ്ങൾക്ക് ഈ അനുഭവ സ്ഥിരാങ്കങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത പ്രവചന കണക്കുകൂട്ടലിനായി അവ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം വിള്ളൽ എങ്ങനെ ആരംഭിക്കും വിള്ളൽ എങ്ങനെ ആരംഭിക്കും എന്നതിനെക്കുറിച്ച് ആളുകൾ ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്ക് അത് നോക്കാം വക്രതയുടെ ആരം ഒരു പ്രവർത്തനമായി ആളുകൾ ക്രാക്ക് ഇനിഷേയ്ഷൻ കണ്ടു നിങ്ങൾക്ക് ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട് ഇത് സൈക്കിളുകളുടെ എണ്ണത്തിന് ഇടയിലാണ് ഇത് ഡെൽറ്റ K 1 ന്റെ ലോഗ് സ്കെയിൽ വേഴ്സസ് ലോഗാണ് rhoയുടെ സ്ക്വയർ റൂട്ട് കൊണ്ട് ഹരിക്കുന്നു ഇവിടെ rho എന്നത് വക്രതയുടെ ആരം ഇത് MPA ഇൽ എഴുതിയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് 200 600 1000 2000 4000 തുടങ്ങിയവയുണ്ട് അതിനാൽ എനിക്ക് ഈ ഗ്രാഫ് ഉള്ളപ്പോൾ ഒരു നേർരേഖ ഭാഗവും ഒരു വക്രവുമുണ്ട് നിലവിലുള്ള ക്രാക്ക് ഉൾപ്പെടുത്തൽ ശൂന്യത അല്ലെങ്കിൽ വീണ്ടും പ്രവേശിക്കുന്ന ഒരു കോണിന്റെ അഗ്രത്തിൽ ക്രാക്ക് ആരംഭിക്കാം ഈ സന്ദർഭങ്ങളിലെല്ലാം വൈകല്യത്തിന്റെ വക്രതയുടെ ആരം ഇനീഷ്യേഷനെ ഗണ്യമായി സ്വാധീനിക്കുന്നു ഈ ഗ്രാഫ് കാണിക്കുന്നു വക്രതയുടെ ദൂരം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോച്ച് ആരം റോയുടെ വ്യത്യസ്ത മൂല്യങ്ങൾക്കായി ഇത് വരയ്ക്കും ഇത് 0 2 മില്ലിമീറ്ററിനായി വരയ്ക്കുന്നു ഇപ്പോൾ ഇത് 0 4 മില്ലിമീറ്ററിനായി വരച്ചിരിക്കുന്നു ഇത് 1 6 മില്ലിമീറ്ററിനായി വരച്ചിരിക്കുന്നു പിന്നീട് ഇത് 6 മില്ലിമീറ്ററിലേക്ക് വരയ്ക്കുന്നു എന്നാൽ നിങ്ങൾ കണ്ടെത്തുന്നത് പ്രാരംഭ ഭാഗത്ത് ചില വ്യത്യാസങ്ങളുണ്ട് പിന്നീടുള്ള ഒരു ഭാഗത്ത് ഇതെല്ലാം സ്ഥിരത കൈവരിക്കും നിങ്ങൾക്ക് ഒരു പരിധി പോലെയുള്ള ഒന്ന് ഉണ്ട് മൂർച്ചയുള്ള വിള്ളൽ നുറുങ്ങുകൾ സൂചിപ്പിക്കുന്ന വക്രതയുടെ ദൂരം കൂടുതലായിരിക്കുമ്പോൾ ഇനിഷേയ്ഷൻ ലൈഫ് ഉയർന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ആരംഭിക്കാൻ കൂടുതൽ സമയമെടുക്കും നിങ്ങൾക്ക് ഇത് ഒരു ഭൌതിക സ്വത്തായി കൂടി ഉണ്ട് 10 പവർ 6 സൈക്കിളുകൾക്കപ്പുറം ഡെൽറ്റ KI യുടെ മൂല്യം rho യുടെ റൂട്ട് കൊണ്ട് ഹരിച്ചാൽ ഒരു പരിധിയിലെത്തും അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഈ ഗ്രാഫിന്റെ പ്രധാന ലക്ഷ്യം ഡെൽറ്റ KI rho യുടെ റൂട്ട് കൊണ്ട് ഹരിച്ചാൽ ഒരു പരിധിയിലെത്തുന്നുവെന്ന് കാണിക്കുക എന്നതാണ് വ്യത്യസ്ത റേഡിയുകളുടെ നോട്ടുകളിൽ നിന്ന് എഞ്ചിനീയറിംഗ് വലുപ്പത്തിലുള്ള വിള്ളലുകൾ ആരംഭിക്കുന്നതിനുള്ള ഒരു മെറ്റീരിയൽ സ്ഥിരാങ്കമായി ഈ പരിമിത മൂല്യം കണക്കാക്കപ്പെടുന്നുവെന്ന് ആളുകൾ കണ്ടെത്തി അതിനാൽ ആളുകൾ ഇതിനെ ഇനിഷ്യേഷൻ ഫ്രാക്ചർ ടഫ്നെസ് എന്നാണ് വിളിക്കുന്നത് അതിനാൽ ആളുകൾ നിരവധി പദങ്ങൾ ഉപയോഗിച്ചു ഫ്രാക്ചർ ടഫ്നെസ് ഇനിഷ്യേഷൻ ഫ്രാക്ചർ ടഫ്നെസ് ഉണ്ട് ഒരു ത്രെഷോൾഡ് മൂല്യമുണ്ട് അത് ഒരു മെറ്റീരിയൽ കോൺസ്റ്റന്റാണ് എന്ന് കണ്ടെത്തി ഈ ഗ്രാഫ് HY 130 സ്റ്റീലിനുള്ളതാണ് വൈകല്യത്തിന്റെയും ഡെൽറ്റ KI യുടെയും വക്രതയുടെ ആരം ന്യൂക്ലിയേഷൻ ജീവിതത്തെ ആശ്രയിച്ചിരിക്കുന്നു ഫാറ്റീഗ് കയറ്റിയ മാതൃകകളുടെ ഉപരിതലത്തിൽ എങ്ങനെയാണ് വിള്ളലുകൾ ഉണ്ടാകുന്നത് എന്നും ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്റട്രൂഷൻ എക്സ്ട്രൂഷൻ തുടങ്ങിയ ആശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ അതിന്റെ ന്യായമായ ഒരു രേഖാചിത്രം തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ പ്രധാനപ്പെട്ട പോയിന്റിൽ എത്തുന്നതിനു ഇത് വളരെ സഹായിക്കും നിങ്ങൾ ഇവിടെ കാണുന്നത് ഇതാണ് ഇത് സ്പെസിമെൻിന്റെ ഉപരിതലമാണ് എക്സ്ട്രൂഷൻ എന്ന് വിളിക്കുന്ന മാതൃകയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന സ്ലിപ്പ് പ്ലെയ്ൻസ് നിങ്ങളുടെ പക്കലുണ്ട് താഴ്വരകൾ രൂപം കൊള്ളുന്നു അതിനെ ഇന്റട്രൂഷൻ എന്ന് വിളിക്കുന്നു ഇത് വളരെ വലുതാക്കിയ ചിത്രമാണ് പരീക്ഷണത്തിൽ നിന്നുള്ള പിന്തുണയും നമ്മൾ കാണുന്നു ഫാറ്റീഗ് ലോഡിംഗിന് കീഴിൽ ഉപരിതലം സ്ഥിരമായ സ്ലിപ്പ് ബാൻഡുകളിൽ ചാക്രിക സ്ലിപ്പ് ഉപയോഗിച്ച് മെറ്റീരിയൽ രൂപഭേദം വരുത്തുന്നു അവ PSB കൾ എന്നറിയപ്പെടുന്നു അവ കടന്നുകയറ്റവും എക്സ്ട്രൂഷനും അടങ്ങുന്ന ക്രമരഹിതമായ നോച്ച് പ്രൊഫൈലുകളുണ്ട് ഈ നുഴഞ്ഞുകയറ്റങ്ങൾ ഒരു വിള്ളലായി വളരുന്നു അതിനാൽ അതിനർത്ഥം നിങ്ങൾ ഫാറ്റീഗ് ലോഡുചെയ്യുമ്പോൾ ഈ സ്ലൈഡ് കാണിക്കുന്നത് എന്താണ് സുഗമമായി മിനുക്കിയ ഫാറ്റീഗ് ഉപരിതലം പരുക്കനായിത്തീരും ഇന്റട്രൂഷനും എക്സ്ട്രൂഷനും കാരണം വളരെ ചെറിയ തോതിൽ സംഭവിക്കുന്നു വ്യക്തതയ്ക്കായി ഇത് വളരെ വലുതായി കാണിക്കുന്നു അതിനാൽ ഉപരിതലത്തിന്റെ പരുക്കൻ സ്വഭാവം ഒരു പരീക്ഷണത്തിലൂടെ നാം കാണും നിങ്ങൾ കണ്ടെത്തുന്നത് ഇന്റട്രൂഷൻ തരംഎക്സ്ട്രൂഷൻ നിങ്ങൾ ഇവിടെ കാണുന്നതെന്തും നിങ്ങൾക്ക് ഫാറ്റീഗ് ലോഡുചെയ്യുമ്പോഴും മോണോടോണിക് ലോഡിംഗ് ഉള്ളപ്പോഴും അവ വ്യത്യസ്തമായിരിക്കും അതും സാഹിത്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മോണോടോണിക് ലോഡിംഗിൽ സ്ലിപ്പ് ബാൻഡുകൾ ഇതുപോലെയാണ് ഫാറ്റീഗ് ലോഡിംഗിന്റെ കാര്യത്തിൽ എക്സ്ട്രൂഷനും ഇന്റട്രൂഷനും ഉണ്ട് ഇന്റട്രൂഷൻ ക്രമേണ ഒരു ഉപരിതല വിള്ളലാകും ആളുകൾ അതിനുള്ള തെളിവുകൾ കാണിച്ചു അതിനാൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ മിനുസമാർന്ന ഫാറ്റീഗ് ഒബ്ജക്റ്റ് മാതൃക ഉണ്ടെങ്കിൽ ഫാറ്റീഗ് ലൈഫ് കൂടുതൽ ആയിരിക്കും ഉപരിതലം വളരെ മിനുസമാർന്നതും മിനുക്കിയതുമല്ലെങ്കിൽ എളുപ്പത്തിൽ ഉപരിതല വിള്ളലുകൾ ഉണ്ടാകുകയും ഫാറ്റീഗ് ലൈഫ് കുറവായിരിക്കുകയും ചെയ്യും ഇത് എന്താണ് പറയുന്നത് ഈ സ്ലൈഡ് കാണിക്കുന്നത് ചക്രങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്എക്സ്ട്രൂഷനും ഇന്റട്രൂഷനും ഉണ്ടാകും അതാണ് പറയുന്നത് തുടർച്ചയായ ഫാറ്റീഗ് ലോഡിംഗ് ഇന്റട്രൂഷനെ ആഴത്തിലാക്കുകയും ഒടുവിൽ സ്ലിപ്പ് തലം ഒരു വിള്ളൽ രൂപപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ഇവിടെയുള്ള സ്ലിപ്പ് വിമാനങ്ങൾ അതിൽ നിന്ന് പുറത്തുവരുന്നു നിങ്ങൾ അവയെ എക്സ്ട്രൂഷൻ എന്ന് വിളിക്കുന്നു അവർ അതിലേക്ക് പോകുന്നു നിങ്ങൾ അതിനെ ഇന്റട്രൂഷൻ എന്ന് വിളിക്കുന്നു ചക്രങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവ വളരുന്നു വേർതിരിച്ചറിയാൻ മോണോടോണിക് ലോഡിംഗിലും ഫാറ്റീഗ് ലോഡിംഗിലും ഈ സ്ലിപ്പ് ബാൻഡുകൾ ദൃശ്യമാകുന്ന രീതി ഈ ഡയഗ്രം കാണിച്ചിരിക്കുന്നു ഈ ഫാറ്റീഗ് ലോഡിംഗ് മാത്രമാണ് നമുക്ക് പ്രധാനം ഒപ്പം സിദ്ധാന്തമായി നിങ്ങൾ വഹിക്കുന്നതെന്തും അത് പരീക്ഷണങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ മാത്രമേ സാധുവായ ഒരു സിദ്ധാന്തമാകൂ പ്രത്യേകിച്ചും ഈ കോഴ്സിൽ സാധ്യമാകുന്നിടത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒരു പരീക്ഷണാത്മക തെളിവ് കാണിക്കാൻ ശ്രമിച്ചു ഈ സാഹചര്യത്തിലും 2005 ൽ പ്രസിദ്ധീകരിച്ച ഒരു പരീക്ഷണാത്മക തെളിവ് ഞാൻ കാണിക്കാം ഇതാണ് അത് പറയുന്നത് 'കുറഞ്ഞ കാർബൺ സ്റ്റീലിന്റെ ഫാറ്റീഗ് ഇൽ ഫാറ്റീഗ് ആദ്യഘട്ടത്തിൽ സ്ലിപ്പ് ബാൻഡുകൾ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു' സിദ്ധാന്തം എന്താണ് പറയുന്നത് ഫാറ്റീഗ് തകരാറിലാകുമ്പോൾ സ്ലിപ്പ് ബാൻഡുകളുടെ സാന്ദ്രത വർദ്ധിക്കുന്നു പരീക്ഷണ ഫലത്തിന്റെ ഭാഗമായി നമ്മൾ അത് കാണും സൈക്കിളുകളുടെ എണ്ണം എന്ന നിലയിൽ ഫാറ്റീഗ് ഡാമേജ്ന്റെ പുരോഗതി ലേസർ അടുത്തിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡിഫ്യൂഷൻ ടെക്നിക് ഞാൻ ഈ ചിത്രം വലുതാക്കാം ഞാൻ വലുതാക്കുന്നതിനുമുമ്പ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ മിനുസമാർന്ന ഉപരിതല പ്രൊഫൈൽ ഇവിടെ കഠിനമായിത്തീർന്നിരിക്കുന്നു നിങ്ങൾ ഇവിടെ കാണുന്നത് 1 5 ഇൻടു 10 പവർ 4 വരെയുള്ള ചക്രത്തിന്റെ ഒരു വ്യാപന പാറ്റേൺ ആണ് നിങ്ങൾ ഇവിടെ വെളുത്ത ഡോട്ടുകൾ കാണുന്നു ഇത് ഡിഫ്യൂഷൻ പാറ്റേൺ നൽകുന്നു ഇത് 2005 ലാണ് പ്രസിദ്ധീകരിച്ചത് സൈക്കിളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ എന്തുസംഭവിക്കുമെന്ന് നമുക്ക് കാണാം സൈക്കിൾ ഇന്റെ എണ്ണം 12 ഇൻടു 10 പവർ 4 ആയി വർദ്ധിക്കുമ്പോൾ ഡിഫ്യൂഷൻ പാറ്റേണിന്റെ വലുപ്പം തീർച്ചയായും വളർന്നു അതിനാൽ ഇത് ഒരു സ്ലിപ്പ് ബാൻഡുകളുണ്ടെന്നതിന്റെ സൂചന നൽകുന്നു ഈ ഫാറ്റീഗ് ഡാമേജ് നിരവധി സൈക്കിൾ ഇന് ശേഷം വർദ്ധിക്കുന്നു അതിനാൽ ഉപരിതലത്തിൽ വിള്ളലുകൾ രൂപപ്പെടുകയും താഴേക്ക് പോകുകയും ചെയ്യുമെന്ന് ഇത് വിശദീകരിക്കുന്നു വിള്ളൽ എങ്ങനെ വളരുമെന്ന് കണ്ടെത്താൻ പാരീസ് നിയമം നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്നു ക്രാക്ക് ഇനിഷെയ്ഷൻ വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ് ക്രാക്ക് ഇനിഷെയ്ഷൻ കാലതാമസം വരുത്താൻ മെറ്റീരിയൽ ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കേണ്ട ഘട്ടമാണിതെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ വ്യത്യസ്ത മോഡലുകൾ നിങ്ങൾ കാണുന്നു എങ്ങനെയാണ് ഉപരിതലത്തിൽ നിന്ന് വിള്ളൽ ആരംഭിക്കുന്നത് എന്ന് അതിനാൽ നമ്മൾ വീണ്ടും ഈ ആനിമേഷൻ കാണും ഉപരിതലമുള്ള മിനുസമാർന്ന പ്രാരംഭ അവസ്ഥയ്ക്കായി നമ്മൾ കാണും അവിടെ N 0 ക് തുല്യമാണ് നിങ്ങൾ ഒന്നും കാണുന്നില്ല നിങ്ങൾ ഒരു ഡോട്ട് മാത്രമേ കാണുന്നുള്ളൂ എനിക്ക് ഇത് വലുതാക്കാനും കാണിക്കാനും കഴിയുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഒരു ഡോട്ട് കാണുന്നു സൈക്കിൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ നിരവധി ഡോട്ടുകൾ കാണുന്നു സൈക്കിൾ കൂടുതൽ വർദ്ധിപ്പിക്കുമ്പോൾ ഫാറ്റീഗ് ഡാമേജ് വ്യാപ്തിയെ സൂചിപ്പിക്കുന്ന ധാരാളം ഡോട്ടുകൾ നിങ്ങൾ കാണുന്നു അനുബന്ധ ഉപരിതല പ്രൊഫൈൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് തരംഗമാണ് ഇത് മുമ്പ് ഇതുപോലെയായിരുന്നില്ല ഇത് ആരംഭിക്കുന്നതിന് ഏകദേശം തിരശ്ചീനമായിരുന്നു അപ്പോൾ നിങ്ങൾ കുറച്ച് തരംഗദൈർഘ്യം കണ്ടു ഇപ്പോൾ നിങ്ങൾക്ക് ഉപരിതലത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഓവർലോഡ് പ്രതിഭാസങ്ങൾ വിശദീകരിക്കാൻ നമ്മൾ വീലറിന്റെ മോഡലിലേക്ക് നോക്കിയിരുന്നു റിട്ടാർഡേഷൻ എങ്ങനെ കണക്കാക്കാമെന്ന് നമ്മൾ പരിശോധിച്ചു ജീവിതത്തിന്റെ അർത്ഥവത്തായ കണക്കുകൂട്ടലിന് നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ ആശ്രയിക്കേണ്ടിവരുമെന്ന് ഞാൻ പറഞ്ഞു വിള്ളൽ വളരുമ്പോൾ സമ്മർദ്ദ തീവ്രത ഘടകത്തെ കണക്കാകുന്നതിനു പോലും നിങ്ങൾ ജ്യാമിതി ഘടകം കൊണ്ടുവരേണ്ടിവരും അപ്പോൾ മാത്രമേ കണക്കുകൂട്ടൽ കൃത്യമാകൂ അപ്പോൾ നിങ്ങൾ ക്രാക്ക് ക്ലോഷർ ഇഫക്റ്റുകൾ കൊണ്ടുവരണം അപ്പോൾ നിങ്ങൾ ഓവർലോഡ് ഇഫക്റ്റുകളും പരിസ്ഥിതിയും കൊണ്ടുവരണം അതിനാൽ നിങ്ങൾ പോയി ലഭ്യമായ സോഫ്റ്റ്വെയറുകൾക്കായി തിരയുന്നതാണ് നല്ലത് ഒന്ന് നാസ പ്രസിദ്ധീകരിച്ച NASGRO യുഎസ് വ്യോമസേന ചെയ്ത മറ്റൊന്ന് AFGROW പിന്നെ നമ്മൾ നോക്കി വിള്ളൽ എങ്ങനെ ആരംഭിക്കും നമ്മൾ കണ്ടു ഇത് വക്രതയുടെ ആരം ഒരു പ്രവർത്തനമാണ് മെറ്റീരിയൽ സ്ഥിരാങ്കമായ ഒരു ഇനിഷേയ്ഷൻ പരിധി ഉണ്ട് ഉപരിതലത്തിൽ വിള്ളലുകൾ എങ്ങനെ രൂപപ്പെടാമെന്നും ആഴത്തിൽ അത് എങ്ങനെ പോകുമെന്നും ഫാറ്റീഗ് ഡാമേജ് ഉണ്ടാകാമെന്നും പറയുന്ന ഇന്റട്രൂഷനും എക്സ്ട്രൂഷനും നമ്മൾ കണ്ടു